ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷക്ഷൻ II പാർട്ട് 7 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 പ്രഭാഷണ നമ്പർ 37 ലാണ് ഇവിടെ പ്ളേനുകളുടെ പ്രൊജക്ഷനുകൾ നമ്മൾ കാണും മുമ്പത്തെ ക്ലാസുകളിൽ കണ്ട പോയിന്റുകളുടെ പ്രൊജക്ഷനും ലൈനുകളുടെ പ്രെഡിക്ഷനും ഇതിനിടയിൽ നമുക്കു പരിശോധിക്കാം ആദ്യം നമുക്കു പ്ളേനുകളുടെ പ്രൊജക്ഷനുകളെ പറ്റി നോക്കാം പ്ളേനുകളുടെ പ്രൊജക്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം നിർവചനം അനുസരിച്ച് പ്ലെയിൻ ഒരു ദ്വിമാന വസ്തുവാണ് അതിന് നീളമുണ്ട് വീതിയും ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഈ ഡ്രോയിംഗ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഒരു പ്ലെയിൻ ആണ് അതിന്റെ നീളം അല്ലെങ്കിൽ വീതി എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കനം വളരെ ചെറുതാണ് അതിനാൽ ദീർഘ ചതുരം ചതുരം വൃത്തം ട്രപീസിയം പോലുള്ള വസ്തുക്കൾ തിരശ്ചീന പ്ലെയിനുകളെയും ലംബമായ പ്ലെയിനുകളെയും അനുബന്ധമായി തിരശ്ചീനമായി അവ വ്യത്യസ്ത തരം കോണുകൾ നിർമ്മിക്കുകയാണെങ്കിൽ അവയുടെ പ്രോജെക്ഷൻസ് എങ്ങനെ കാണപ്പെടും ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഈ ദീർഘചതുരങ്ങൾ തിരശ്ചീന തലം അല്ലെങ്കിൽ ലംബ തലം എന്നിവയിലേക്ക് ചരിവ് ഉള്ളതാകാം അവ വ്യത്യസ്ത സെക്ഷനുകളിലും വ്യത്യസ്ത അരികുകളിലും വ്യത്യസ്ത തരം കോണുകളുണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് പടിപടിയായി അത് നിർമ്മിക്കാൻ സാധിക്കുമോ അങ്ങിനെ എങ്കിൽ അവയുടെ ഫ്രണ്ട് വ്യൂ എന്താണെന്നും ടോപ് വ്യൂ എന്താണെന്നും സൈഡ് വ്യൂ എങ്ങനെ കാണപ്പെടുന്നുവെന്നും നമുക്ക് നോക്കാം അതിനാൽ സാധാരണയായി പ്ലെയിൻ ഫിഗറിനെ പറ്റി പറയുന്നത് ഒരു ചതുരം പോലെയോ അല്ലെങ്കിൽ ഒരുപക്ഷേ നീളവും വീതിയും ഉള്ള ദീർഘചതുരം പോലെയോ ആണ് തിരശ്ചീന തലം ലംബ തലം എന്നിവയ്ക്ക് അനുബന്ധമായി അതിന്റെ സ്ഥാനം സാധാരണയായി നൽകുന്നു ഒരുപക്ഷേ നമുക്ക് റഫറൻസ് പ്ലെയിനുകളിലൊന്നിൽ ഉപരിതല ചായ്വുണ്ടാകാം അല്ലെങ്കിൽ റഫറൻസ് പ്ലെയിനുകളുള്ള അതിന്റെ അരികുകളുടെ ചെരിവും ചില സന്ദർഭങ്ങളിൽ ലഭ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ അല്ലെങ്കിൽ സൈഡ് വ്യൂ എന്നിവ വരയ്ക്കാനാകുമോ നമുക്ക് ഒരു ദീർഘചതുരം നോക്കാം തിരശ്ചീന തലത്തിന് സമാന്തരമായി ഉള്ള ഒരു ദീർഘചതുരം എടുക്കാം ത്രിമാനത്തിൽ ഇത് എങ്ങനെ കാണപ്പെടുന്നു നമുക്ക് ഇവിടെ ഒരു ദീർഘചതുരം ഉണ്ട് ഇത് തിരശ്ചീന തലത്തിന് സമാന്തരമാണ് ഇതാണ് തിരശ്ചീന തലം ത്രിമാനത്തിൽ ഈ മുഴുവൻ ലൈൻ കൂട്ടിമുട്ടപ്പെടുന്നതായി നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും കൂടാതെ ഫ്രണ്ട് വ്യൂവിൽ ഇവിടെ ഒരു ലംബ രേഖ ac യും കാണാം ഈ ദീർഘചതുരം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ദീർഘചതുരം കൂടി നൽകുന്നു ഈ ദീർഘചതുരം തിരശ്ചീന തലത്തിന് സമാന്തരമാകുമ്പോൾ ഇതിന്റെ പൂർണ്ണ ദൈർഘ്യം ഫ്രണ്ട് വ്യൂവിൽ ദൃശ്യവൽക്കരിക്കാൻ കഴിയും ഇത് ടോപ്പ് വ്യൂവിൽ കാണാൻ കഴിയുന്ന പൂർണ്ണ ഏരിയയാണ് അവിടെ നമുക്ക് ആ നീളവും വീതിയും ലഭിക്കും ഈ തിരശ്ചീന തലം 90 ഡിഗ്രി കറക്കുകയാണെങ്കിൽ പ്രൊജക്ഷനുകൾ കാണിക്കാൻ നമ്മൾ ചെയ്യുന്നത് ആദ്യം a b a എന്നിവ കണ്ടെത്തുന്നു അതിനാൽ ഇതിനെ പോയിന്റ് A എന്നും ഇത് പോയിന്റ് B എന്നും ഇത് പോയിന്റ് C എന്നും ഇത് പോയിന്റ് D എന്നും വിളിക്കാം അതിനാൽ നമ്മൾ ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ രണ്ട് A B പോയിന്റുകളും യോജിക്കുന്നു അതിനാൽ ഫ്രണ്ടൽ വ്യൂവിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരേ സ്ഥാനത്ത് a b c d എന്നിവ വന്നിരിക്കുന്നത് ആണ് ഇതാണ് നമ്മൾ നിരീക്ഷിക്കുന്ന രീതി തുടർന്ന് നമ്മൾ പ്രൊജക്ഷനുകൾ താഴേക്ക് നീട്ടുകയാണെങ്കിൽ കൃത്യമായി ഒരു പോയിന്റ് ആരംഭിക്കുന്ന ലംബ തലം നേരത്തെ അറിയാമെങ്കിൽ a കണ്ടെത്തുവാൻ നമുക്ക് കഴിയും a പോയിന്റ് കണ്ടെത്താൻ മറ്റൊരു തിരശ്ചീന രേഖ വരയ്ക്കുക ദീർഘചതുരത്തിന്റെ വീതി അറിയാമെങ്കിൽ നമുക്ക് b പോയിന്റ് കണ്ടെത്താനാകും b അറിഞ്ഞുകഴിഞ്ഞാൽ ഈ ലോക്കസ് നമുക്കറിയാം അതിനാൽ c പോയിന്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടു പിടിക്കാൻ കഴിയും ഇതിനകം തന്നെ ഈ a പോയിന്റ് നമുക്കറിയാം അതിനാൽ ഈ വീതി കാരണം ആ ലോക്കസിൽ നമുക്ക് d പോയിന്റും കണ്ടെത്താനാകും തുടർന്ന് ab bc cd ad എന്നിവ കൂട്ടി യോജിപ്പിക്കുക ആ ദീർഘചതുരത്തിന്റെ ടോപ് വ്യൂ നമ്മൾ നിർമ്മിക്കുന്ന രീതിയാണിത് ഇതേ ദീർഘചതുരം തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞിട്ടുള്ള ഒരു കേസ് നമുക്കു നോക്കാം അതിനായി നമുക്ക് ഒരു ലംബ തലം ഉണ്ടെന്ന് സങ്കല്പിക്കാം അതായത് നമ്മുടെ ദീർഘചതുരം തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഒരുപക്ഷേ ഇത് ഒരു പ്രത്യേക തരം ദീർഘചതുരം ആയിരിക്കാം ഇതാണ് നമ്മുടെ A B C D പോയിന്റുകൾ അതിനാൽ ലംബമായ തലത്തിലുള്ള ഫ്രണ്ട് വ്യൂ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഇത് നൽകുന്നു ഇതൊരു തിരശ്ചീന തലം ആണ് ഇത് നമുക്ക് ടോപ് വ്യൂ നൽകുന്നു ഇവിടെ ഈ ലൈൻ ഒരു ചെരിഞ്ഞ ഒന്നിലേക്ക് മാപ്പുചെയ്യുന്നു അതിനാൽ തിരശ്ചീന തലം അനുബന്ധമായുള്ള ഇൻക്ക്ളിനേഷൻ ആംഗിൾ നമുക്ക് ഫ്രന്റ് വ്യൂവിൽ കാണാനാകും ഈ ദീർഘചതുരം തിരശ്ചീന തലത്തിലേക്ക് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ A പോയിന്റിനെയും B പോയിന്റിനെയും അനുബന്ധമായി നമുക്ക് ഒരു ചെരിവും ഭ്രമണവും നടക്കുന്നുണ്ടെങ്കിൽ AB പോയിന്റുകൾ അവയിലേക്ക് മാപ്പുചെയ്യപ്പെടും ഇത് b എന്നാൽ c പോയിന്റ് ഇവിടെ കുറച്ചുകൂടി അടുത്തായി മാപ്പ് ചെയ്യപ്പെടുന്നു കാരണം ഇത് ഒരു പ്രൊജക്ഷൻ ആയതിനാൽ അതിന്റെ പ്രൊജക്ഷൻ എല്ലായ്പ്പോഴും കുറയുന്നു അതിനാൽ bc ചെറിയ അക്ഷരം bc വലിയ അക്ഷര BC നീളത്തേക്കാൾ ചെറുതാണ് അതിനാൽ ഞങ്ങൾ ഈ ചിത്രം വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് നോക്കാം കാരണം ഈ വരി ഈ ലംബ തലത്തിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിലും ഈ നീളം മാറുന്നില്ല അതിനാൽ ഒന്നാമതായി മുകളിലുള്ള തിരശ്ചീന തലത്തിൽ കൃത്യമായി A പോയിന്റ് B പോയിന്റ് എവിടെയാണെന്ന് കണ്ടെത്തുന്നു തിരശ്ചീന തലത്തിൽ നിന്ന് ഇത്രയും നീളം അറിഞ്ഞുകഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ a b പോയിന്റ് കണ്ടെത്തും ഈ ദീർഘചതുരം തിരശ്ചീന തലവുമായിട്ടു ഒരു ആംഗിൾ നിർമ്മിക്കുന്നു അതിനാൽ ലംബ തലത്തിൽ നമുക്ക് ആ c'd' വരകൾ വരയ്ക്കാം ഈ ദൈർഘ്യം ഫ്രന്റ് വ്യൂവിൽ നിന്നും നമുക്കു ലഭിക്കുന്നതാണ് അതിനാൽ ഈ രീതിയിൽ നമുക്കു അതിനെ കണ്ടെത്താം ഈ ലൈനുകൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യുന്നു ടോപ് വ്യൂവിൽ നിന്ന് A പോയിന്റ് എത്ര ദൂരെയാണെന്നോ ലംബമായ തലത്തിനു എത്ര മുന്പിലാണെന്നോ നമുക്കറിയാം കൃത്യമായി a പോയിന്റ് സ്ഥിതിചെയ്യുന്ന പോയിന്റ് കണ്ടെത്തുന്നു അതുപോലെ നമുക്കു ആ b പോയിന്റ് കണ്ടെത്താം abcd പോയിന്റുകൾ കണ്ടെത്തുന്നതിന് ഈ പ്രൊജക്ടർ ലൈനിനെ ഇന്റർസെക്ക്ട് ചെയ്യുന്ന ലോക്കസ് ലൈനുകൾ വരയ്ക്കുക ചെറിയ വശവും തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ നമുക്ക് അത് ഗ്രാഫിക്കായി നോക്കാം ഉദാഹരണത്തിന് ഇത് നമ്മൾ സൂചിപ്പിക്കുന്ന ദീർഘചതുരമാണ് തുടക്കത്തിൽ ഇതിന്റെ തിരശ്ചീന തലം സമാന്തരമാണ് അതിനുശേഷം ഈ ചരിവ് ഉണ്ട് അത് ആ ദിശയിൽ ചെരിയുകയാണെങ്കിൽ ഇത് 3 ദിശകൾ പോലെയാണ് അതിനാൽ ഇത് തിരശ്ചീന തലം ആണെങ്കിൽ ആദ്യം നമ്മൾ അത് ആ ദിശയിലേക്ക് ചെരിച്ചു തുടർന്ന് മറ്റൊരു ദിശയിലേക്ക് ചെരിയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രൊജക്ഷൻ എന്താണ് പൂർണ്ണമായ ദീർഘചതുരം കാണാനാകുന്ന അവസ്ഥയിലാണോ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ കാണുന്ന പ്രദേശമാണിത് ഞാൻ അത് തിരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പ്രൊജക്ഷൻ തലത്തിൽ ആ ദീർഘചതുരത്തിന്റെ വിസ്തീർണ്ണം ഗണ്യമായി കുറയുന്നതായി തോന്നുന്നു നിങ്ങൾക്ക് ഈ പ്രൊജക്ഷനുകൾ ഉള്ളപ്പോൾ ഈ ഇൻക്ക്ളിനേഷൻ ആംഗിൾ അടിസ്ഥാനമാക്കി നിങ്ങൾ അത് വ്യത്യസ്തമായി കാണുന്നു ഈ ബോക്സിനുപോലും ഇതുതന്നെ സംഭവിക്കുന്നു നമുക്ക് ഈ ബോക്സ് ഉണ്ട് നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയും ഇവ എങ്ങനെ കാണപ്പെടുന്നു എന്നതും വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ ഒരു ചെരിവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ രീതിയിൽ കാണാൻ കഴിയും അതിനാൽ ഇതാണ് ദീർഘചതുരം നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന അതേ ദീർഘചതുരം ഞാൻ ആ ദിശയിൽ തിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഇത് കാണുന്നുവെന്ന് കരുതുക ഇപ്പോൾ മറ്റേതെങ്കിലും ആംഗ്ളിൽ ഇത് തിരിച്ചാൽ ഈ ലൈൻ പോലെ നിങ്ങൾ ഇത് കാണും കൂടാതെ ഈ പിൻവശം നിങ്ങൾ ഇവിടെ കാണും ഇതാണ് നിങ്ങൾ കാണുന്ന രീതി അതിനാൽ നിങ്ങൾ ദീർഘചതുരങ്ങൾ നമ്മുടെ സ്ലൈഡിലെ അതേ രീതിയിൽ നിരീക്ഷിക്കുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾ ആ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ദീർഘചതുരം പാരല്ലെലോഗ്രാം ആയോ ട്രപ്പീസിയം ആയോ അല്ലെങ്കിൽ മറ്റു പല രൂപങ്ങളിലേക്കോ ഗണ്യമായി മാറുന്നത് കാണാം അതിനാൽ ഈ വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ഈ വ്യൂസ് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾക്ക് ഒരു ടാപ്പേർഡ് ഒബ്ജക്റ്റ് ഉണ്ട് അതിന്റെ ടോപ് വ്യൂ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകൾ എന്താണെന്ന് അറിയാതെ അത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇത് വ്യക്തമായ രീതിയിൽ പ്രൊഡക്ഷൻ ടീമിനെ അറിയിക്കേണ്ടതുണ്ട് അതിനാൽ അത്തരം തിരിഞ്ഞതും ചെരിഞ്ഞതുമായ തരം വസ്തുക്കൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് പഠിക്കാം

ടോപ് വ്യൂവിൽ നിന്ന് ദൃശ്യമാകുന്ന ഈ ദീർഘചതുരം നമ്മൾ തിരിക്കുകയോ ഞെക്കുകയോ ചെയ്താൽ ഫ്രണ്ട് വ്യൂ പൂർണ്ണമായും ഒരു പാരല്ലെലോഗ്രാം ആയിട്ടു മാറുന്നു അതിനാൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം നമ്മൾ ഒരു ദീർഘചതുരം എടുക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം തിരശ്ചീന തലത്തിൽ നിന്ന് അത് ഉയർത്തുക അങ്ങനെ അത് തിരശ്ചീന തലത്തിന് അനുബന്ധമായി ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു തുടർന്ന് ഈ ചെറിയ എഡ്ജ് വഴി തിരിക്കുക ഇപ്പോൾ നമ്മൾ ഈ പോയിന്റുകൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഈ പോയിന്റുകൾ എങ്ങനെ പ്രോജക്റ്റ് ചെയ്യാം നമ്മൾ ഇതിനകം കണ്ട ആദ്യത്തെ കാര്യം ഒരു ദീർഘചതുരം ഒരു ലൈൻ എന്നിവ പോലെയാണ് പിന്നെ നമുക്ക് ലഭിക്കുന്ന പ്രൊജക്ഷനുകൾ എന്തൊക്കെയാണെങ്കിലും അത് തിരിക്കുമ്പോൾ നമുക്ക് ലൈൻ പ്രൊജക്ഷൻ ഉണ്ടാകും അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഒബ്ജക്റ്റ് നമ്മുടെ തിരശ്ചീന തലത്തിന് സമാന്തരമാണ് ഉദാഹരണത്തിന് 3D യിൽ ഈ ദീർഘചതുരം തിരശ്ചീന തലത്തിന് സമാന്തരമാണ് ഫ്രണ്ട് വ്യൂ ലംബ തലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ നീളം abcd എന്നിവ കണ്ടെത്താനാകും അതുപോലെ ടോപ് വ്യൂവിൽ ഈ ദീർഘചതുരം വരയ്ക്കുക

ഇപ്പോൾ ഈ ദീർഘചതുരം ഒരു നിശ്ചിത കോണിൽ തിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരുപക്ഷേ നമുക്ക് 30 ഡിഗ്രി അത് തിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം ഈ 30 ഡിഗ്രി ഭ്രമണം നമ്മൾ എവിടെയാണ് കാണുന്നത് നമ്മൾ A B ലൈനിനു ചുറ്റും കറങ്ങുകയാണെങ്കിൽ ഈ C D എന്നിവ അല്പം മുകളിലേക്ക് ഉയർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ B C ലൈൻ AD ലൈനുമായിട്ടു കൂട്ടി മുട്ടി ഫ്രണ്ട് വ്യൂവിൽ ഒരു 30 ഡിഗ്രി കോണാക്കി മാറ്റുന്നു അതിനാൽ ലംബ തലത്തിൽ 30 ഡിഗ്രി കോണിനൊപ്പം ഒരേ നീളം BC അല്ലെങ്കിൽ AD ലൈൻ വരയ്ക്കുക ഇതിനെ a'b'c'd' എന്ന് വിളിക്കാം അത് ചെയ്തുകഴിഞ്ഞാൽ c മുതൽ താഴേക്ക് ലൈൻ പ്രോജക്റ്റ് ചെയ്യുക അതുപോലെ a' മുതൽ താഴേക്ക് പ്രോജക്റ്റ് ചെയ്യുക ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ നീളം AB ക്കു വ്യത്യാസം ഒന്നും വന്നിട്ടില്ല എന്ന് കാണാം അതിനാൽ ആദ്യ പോയിന്റ് a കണ്ടെത്തുക അതിനുമുകളിൽ എത്രത്തോളം അതിനുമുന്നിൽ എത്രത്തോളം എന്നതിനെ അടിസ്ഥാനമാക്കി a' b' കണ്ടെത്തുക അത് ലഭിച്ചുകഴിഞ്ഞാൽ abcd പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് നമുക്ക് ലോക്കസ് പോയിന്റുകൾ നിർമ്മിക്കാൻ കഴിയും സാധാരണയായി ഇത്തരത്തിലുള്ള പ്ളേനുകളുടെ പ്രൊജക്ഷൻ നമ്മൾ നിർമ്മിക്കുമ്പോൾ തിരിച്ചറിയാൻ നമുക്ക് ഒന്നിലധികം ചിത്രങ്ങൾ ഉണ്ടാകും ആദ്യ ചിത്ര തലത്തിൽ നമ്മൾ a എന്ന് എഴുതുന്നു അടുത്ത ചിത്ര തലത്തിൽ a1 എന്ന് എഴുതുന്നു ഇതാണ് ലൈനുകളുടെ പ്രൊജക്ഷൻ രണ്ടാമത്തെ ചിത്രം വന്നാൽ സ്വാഭാവികമായും അത് a2 b2 എന്നിങ്ങനെ മാറുന്നു അതാണ് നമ്മൾ പിന്തുടരുന്ന സ്റ്റാൻഡേർഡ് കൺവെൻഷൻ

അതിനാൽ ഈ ദീർഘചതുരം പ്രൊജക്റ്റുചെയ്യുമ്പോൾ നമ്മൾ a1 b1 c1 d1 ലൈൻ കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ലൈനുമായി അനുബന്ധിച്ച് ഈ മുഴുവൻ ദീർഘചതുരവും തിരിക്കാൻ നമ്മൾക്കാകും ഇത് a1 b1 c1 d1 എന്ന പ്രൊജക്ഷൻ ആയി നമുക്ക് പരിഗണിക്കാം ഈ c1 നായി d1 പോയിന്റിൽ അനുബന്ധമായി കറങ്ങാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് കൃത്യമായി എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താനാകും അതിനാൽ a1 ഉം നീങ്ങുന്നു നമ്മൾ d1 പോയിന്റിൽ കറക്കുകയാണെങ്കിൽ ഡ്രോയിംഗ് ഷീറ്റിൽ നമുക്ക് കണ്ടെത്താം ഞാൻ ഈ പോയിന്റിനെ a1 ആയി ഈ പോയിന്റ് d1 ആയി ഈ പോയിന്റ് b1 ആയി ഈ പോയിന്റ് c1 ആയി കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷേ ഇത് നമുക്ക് ഉള്ള ദീർഘചതുരം ആയിരിക്കും നമുക്ക് വേണ്ടത് ഇത് d1 ന് ചുറ്റും തിരിക്കുക എന്നതാണ് അതിനാൽ d 1 ൽ നിന്ന് പുറത്തേക്ക് നീങ്ങരുത് ഈ d1 പോയിന്റിനെ അനുബന്ധമായി നമ്മൾ അത് തിരിക്കണം അതിനാൽനമുക്ക് ലഭിക്കുന്ന പ്രൊജക്ഷൻ ഇതാണ് അടുത്ത പ്രൊജക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് d1 പോയിന്റിലാണ് അത് തിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ d1 അവിടെ അതേപടി നിലനിൽക്കുന്നു പക്ഷേ a മുതൽ d വരെ നമ്മുടെ തിരശ്ചീന അക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻക്ക്ളിനേഷൻ ആംഗിൾ ഉണ്ടാക്കാൻ പോകുന്നു നമ്മൾ തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ തിരശ്ചീന അക്ഷമാണെന്ന് പരിഗണിക്കാം അതിനാൽ അടുത്ത പ്രൊജക്ഷനിൽ നമ്മൾ തിരയുന്ന ഭ്രമണം എന്താണെന്ന് വരയ്ക്കണം അതിനാൽ ഇത് a1 b 1 c 1 d 1 നിർമ്മിച്ചതിനുശേഷം നമ്മൾ d 1 പോയിന്റ് a1 ന് ചുറ്റും കറങ്ങുന്നു നമ്മൾ കറക്കുമ്പോൾ അത് നീളത്തിന്റെ മാറ്റം മാത്രമാണ് ഒരു പ്രൊജക്ഷനും മാറ്റാതെ നമ്മൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ a1 d1നു ലംബമായി a1 b1 വരും അതിനാൽ അത് ചെയ്യാൻ ലംബമായി നമ്മൾ അത് വരയ്ക്കണം അതിനാൽഈ രീതിയിൽ നമുക്ക് ഈ ദീർഘചതുരം നിർമ്മിക്കാൻ കഴിയും ഈ ദീർഘചതുരം നിർമ്മിച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ വ്യൂസ് വേണം അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഷീറ്റിൽ a1 പോയിന്റ് ആദ്യം പ്രൊജക്റ്റ് ചെയ്യുന്നു b1 ഒന്ന് തിരിച്ചിട്ടു പ്രൊജക്റ്റ് ചെയുന്നു c1 പ്രൊജക്ഷനും d1 പ്രൊജക്ഷനും അതിലൂടെ കടന്നുപോകുന്നു എന്നാൽ ഇതിനകം തന്നെ ഈ ഇൻക്ക്ളിനേഷൻ ആംഗിൾ എന്താണെന്നു നമുക്ക് അറിയാം അവിടെ നിന്ന് നമ്മൾ അത് തിരിക്കുന്നതിനാൽ d1' c1' നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും a1 പ്രൊജക്റ്റ് ചെയ്യുക എന്നിട്ടു അത് ഇന്റർസെക്ക്ട് ചെയ്യുന്ന പോയിൻറ് കണ്ടുപിടിക്കുക ആ ലൈനിലേക്ക് b1 പ്രോജക്റ്റ് ചെയ്യുക എന്നിട്ടു അത് കണ്ടുപിടിക്കുക c യിൽ നിന്ന് c1 പ്രൊജക്റ്റ് ചെയ്യുക എന്നിട്ടു അത് കണ്ടുപിടിക്കുക അതുപോലെ ആ ലൈനിലേക്ക് d1 പ്രോജക്റ്റ് ചെയ്യുക അത് കണ്ടെത്തുക പ്രൊജക്ഷൻ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഈ പോയിൻറ്കൾ ചേർത്തുകഴിഞ്ഞാൽ നമ്മുടെ അവസാന ചിത്രം കാണുവാൻ കഴിയും ഈ സ്ലൈഡിലെ ഉദാഹരണം 1 നോക്കാം നമ്മൾക്ക് 30 മില്ലീമീറ്ററും 50 മില്ലീമീറ്ററും ഉള്ള ഒരു ദീർഘചതുരം ഉണ്ട് ഇവ തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്ന വശങ്ങളാണ് ഒരു ചെറിയ വശത്ത് ലംബ തലത്തിലേക്ക് 30 ഡിഗ്രി ചെരിഞ്ഞാൽപ്ലെയ്നിന്റെ ഉപരിതലം 45 ഡിഗ്രി തിരശ്ചീന തലത്തിലേക്ക് ഒരു ചെരിവ് ഉണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോജെക്ഷൻസ് എങ്ങിനെ ലഭിക്കും എന്ന് നോക്കാം അതിനാൽ 30 മില്ലീമീറ്റർ മുതൽ 50 മില്ലീമീറ്റർ ഉള്ള ദീർഘചതുരം തിരശ്ചീന തലത്തിൽ വശങ്ങളിൽ വിശ്രമിക്കുന്നു ഒരു ചെറിയ വശം ലംബ തലത്തിലേക്ക് 30 ഡിഗ്രി ഉണ്ടാക്കുന്നു ഇതിനർത്ഥം നമ്മൾ ഇത് ദീർഘചതുരമായി എടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു വശത്ത് 50 മില്ലീമീറ്ററും ഒരു വശത്ത് 30 മില്ലീമീറ്ററും ഉണ്ടെന്ന് നമുക്ക് പരിഗണിക്കാം ഇത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു ചെറിയ വശം എന്തായാലും ലംബ തലത്തിലേക്ക് 30 ഡിഗ്രി ചെരിവുണ്ടാക്കുന്നു ഈ റൊട്ടേഷൻ വ്യൂവിൽ നമുക്ക് ആ ഇൻക്ക്ളിനേഷൻ ആംഗിൾ ലഭിക്കും ഈ നിർമ്മാണത്തിനായി നമ്മുടെ ഡ്രോയിംഗ് ഷീറ്റ് നോക്കാം അത് എങ്ങനെ ചെയ്യാം ഒന്നാമതായി പ്ലെനുകളുടെ പ്രൊജക്ഷനിൽ ഒരു X Y തലം വരയ്ക്കുക ഇവിടെ 2 3 വ്യൂസ് ഉള്ളതിനാൽ X Y ലൈൻ കുറച്ചു കൂടി നീട്ടി വരക്കാം നമുക്ക് ഇതിനെ ഒരു X ആക്സിസ് Y ആക്സിസ് എന്ന് വിളിക്കാം ഇത് 30 മില്ലീമീറ്റർ 50 മില്ലീമീറ്റർ അളവുകൾ ഉള്ള ദീർഘചതുരമാണ് അത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല അതിനാലാണ് നമ്മൾ ആദ്യം 30 50 എന്ന ദീർഘചതുരം വരയ്ക്കുന്നത് അതിനാൽ തുടക്കത്തിൽ സമാന്തരമായി ഒരു തലം ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം തുടർന്ന് ലംബ തലത്തിലും തിരശ്ചീന തലത്തിലും ഒരു ആംഗിൾ നിർമ്മിക്കുക ഇതാണ് നമ്മുടെ ദീർഘചതുരം ഇനി വ്യൂസ് അറേഞ്ച് ചെയ്യുക ഒന്നാമതായി 30 X 50 ദീർഘചതുരം നിർമ്മിക്കുക abcd എന്ന് പോയിൻറുകൾക്ക് പേരുനൽകുക അതിന്റെ പ്രൊജക്ഷൻ എല്ലായ്പ്പോഴും ഈ സ്ഥാനത്തേക്ക് ആയിരിക്കും അതിനാൽ നമ്മൾ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്നു ഇത് a'b c'd' എന്നിവ ഇവിടെ കൂട്ടിമുട്ടുന്നതായി കാണാം ഇപ്പോൾ ഈ മുഴുവൻ ദീർഘചതുരവും തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നതായി കാണാം ചെറിയ വശം എല്ലായ്പ്പോഴും ലംബ തലത്തിൽ 30 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ പ്ളേനിൽ 45 ഡിഗ്രി ഉണ്ടാക്കുന്ന റെസ്റ്റിംഗ് ലൈൻ വരയ്ക്കുക ഇത് ഈ സ്ഥാനത്ത് നിന്ന് 45 ഡിഗ്രി ഉണ്ടാക്കുന്നു അതിനാൽ ഇതിനെ നമുക്കു ദീർഘചതുരത്തിലേക് ജോയിൻ ചെയ്യിക്കാം നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥ നീളമാണ് അതായത് 50 മില്ലീമീറ്റർ മുഴുവൻ നീളം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ഇതിനെ ab' എന്ന് വിളിക്കാം ഇതും നമ്മൾ തിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മറ്റ് സഫിക്സുകൾ മാറ്റാത്തതും ഈ ആംഗിൾ 45 ഡിഗ്രി ആക്കി വെക്കുന്നതും അതിനർത്ഥം നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ദീർഘചതുരം 45 ഡിഗ്രി ചെരിവ് ഉണ്ടാക്കുന്നു ഈ ലൈനുകൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അതിനാൽ പ്രൊജക്ഷൻ ആ രീതിയിൽ കൈമാറാൻ നമുക്കു റോളർ സ്കെയിൽ ഉപയോഗിക്കാം ഇപ്പോൾ ദീർഘചതുരം ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ ഇതാണ് നമ്മൾ അതിനെ കറുപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ദീർഘചതുരം 30 മില്ലീമീറ്റർ X 50 മില്ലീമീറ്റർ ഉള്ള തിരശ്ചീന തലത്തിൽ 45 ഡിഗ്രി കറക്കുന്ന ഒന്നാണ് ടോപ്പ് വ്യൂയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു ചെറിയ ദീർഘചതുരം പോലെ കാണപ്പെടുന്നു അതിനാൽ മുകളിലുള്ള കാഴ്ചയിൽ ഇവയെ a1 b1 c1 d1 എന്നിങ്ങനെ നമുക്ക് വിളിക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോജെക്ഷൻ a1 അല്ലെങ്കിൽ b1 അല്ലെങ്കിൽ c1 നെ അനുബന്ധം ആക്കി തിരിക്കുക എന്നതാണ് ഇതാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് പ്ലെയ്നിന്റെ ഉപരിതലങ്ങൾ HP യുമായി 45 ഡിഗ്രി ചെരിവ് ഉണ്ടാക്കുമ്പോൾ അത് ചെറിയ വശത്തേക്ക് 30 ഡിഗ്രി ഉണ്ടാക്കാൻ പോകുന്നു അതിനാൽ ചെറിയ വശം ഇതാണ് ഇത് നമ്മൾ ആ ദിശയിൽ 30 ഡിഗ്രി ആക്കണം അതിനാൽ നമുക്ക് ആ നീളം കൈമാറാം അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ നമ്മുടെ ദീർഘചതുരം 30 ഡിഗ്രി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഈ പോയിന്റ് കണ്ടെത്തുക ഇതാണ് 30 ഡിഗ്രി ആംഗിൾ ചെറിയ വശം ഇവിടെ എവിടെയെങ്കിലും 30 ഡിഗ്രി ഉണ്ടാക്കുന്നു എന്നിട്ടു ഈ ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഇവിടെ a1 നെ ബേസ് ചെയ്താണ് തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പ്രൊജക്ഷൻ ഈ a1 b1 നോട് എവിടെയെങ്കിലും സമാനമായിരിക്കും അതിനാൽ നമുക്ക് a1b1 നീളം കൈമാറാം അതിനാൽ നമുക്ക് വേണ്ടത്ര ദൈർഘ്യം ഇല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനായി നമുക്കു ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ പ്രൊജക്ഷനിൽ നമുക്ക് ഈ ലോക്കസ് അനുവദിക്കാം ഇതാണ് നമ്മുടെ a1 ഇതിനെ നമ്മൾ 30 ഡിഗ്രി തിരിക്കാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ a 1 എന്ന ലൈന് ചുറ്റും 30 ഡിഗ്രി കണ്ടെത്തുക അതിനാൽ അത് ഇവിടെ നമ്മുടെ a1 b1 ൽ ഇന്റർസെക്ക്ട് ചെയ്യുന്നു നമ്മൾ a1 തിരിക്കുമ്പോൾ a1ന്റെ മൂല്യം അതേപടി നിലനിർത്തും അതിനാൽ നമ്മുടെ b1 ഇവിടെ ഉണ്ടാകും നമുക്ക് a1 b1 തമ്മിൽ യോജിപ്പിക്കാം അതിനു ലംബമായി എനിക്ക് c'd' തുടങ്ങിയ മറ്റ് പോയിന്റുകൾ വരയ്ക്കണം അതിനാൽ നമുക്ക് ഈ ലൈൻ വിപുലീകരിക്കാം ഈ b1 c1 എന്നിവയിലും നമ്മൾ ഇതുതന്നെ കാണാൻ പോകുന്നു അതിനാൽ ഈ b1 c1 നീളം ഇവിടെ കൈമാറുക ഇപ്പോൾ ഈ ലൈനുകൾ ആ പ്ളേനിൽ യോജിപ്പിക്കുക ഇപ്പോൾ b യിൽ നിന്ന് b1 a1 എന്നിവയിലേക്ക് നമുക്ക് പ്രൊജക്ടറുകൾ വരയ്ക്കണം ഇതിനെ നമുക്കു c1 എന്ന് വിളിക്കാം ഇത് പോലെ നമുക്കു a1b1c1 എന്നിവയിലേക്കും പ്രൊജക്ഷനുകൾ വരക്കാം b b ന്റെ ഇന്റർസെക്ഷൻ പോയിന്റുകളാണ് ഇവ അതിനെ b'എന്ന് വിളിക്കാം a a യുമായുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് ഇതുപോലെ നമ്മൾ കണ്ടെത്തണം ഇതാണ് നമുക്കുള്ള യഥാർത്ഥ ലൈൻ ഇതാണ് a' d d കൂടിയ ഒരു ലൈൻ അതിനാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലോക്കസ് ലൈൻ വരയ്ക്കാം ഇതാണ് d' അതുപോലെ c c' നമുക്കു ഈ ലൈനുകൾ യോജിപ്പിക്കാം ലൈനുകൾ യോജിപ്പിക്കുന്ന സമയം നമ്മൾ അതിനെ 30 ഡിഗ്രി തിരിക്കുകയും ടോപ് വ്യൂയിലും ഫ്രന്റ് വ്യൂയിലും ആ കോണിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ അത് ഒരു ദീർഘചതുരമാണെങ്കിലും പാരല്ലെലോഗ്രാം പോലുള്ള ആകൃതി നമുക്ക് ലഭിക്കുന്നതുപോലെ തോന്നുന്നു അതിനാൽ കാഴ്ചകൾ ഒരു തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വസ്തുവിന്റെ പൂർണ്ണമായ യഥാർത്ഥ രൂപം അവർ നമുക്കു നല്കണമെന്നില്ല ഒരു വസ്തു തിരിക്കുമ്പോഴോ ഉയർത്തുമ്പോഴോ നിങ്ങൾ സാധാരണ നിലയിലോ സൈഡ് വ്യൂ ആംഗിളുകളിലോ നോക്കുമ്പോൾ യഥാർത്ഥ നീളവും ചെറുതായി വികൃതമാകും അതിനാൽ ഇതും ഒരു കാരണമാണ് ഈ ഒബ്ജെക്ടിന്റെ യഥാർത്ഥ രൂപങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിനും കണ്ടെത്തുന്നതിനും പ്രൊജക്ഷനുകളും ഡ്രോയിംഗ് കോഴ്സും നമ്മളെ സഹായിക്കുന്നു ആ അർത്ഥത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാൽ ഇങ്ങിനെ സംഗ്രഹിക്കാം നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഭ്രമണങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കു ഈ യഥാർത്ഥ ആകൃതിയും യഥാർത്ഥ നീളവും ലഭിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യൂസ് ഇതൊക്കെ ആണ് ഒബ്ജക്റ്റ് ശരിയായി തിരിക്കുന്നതിലൂടെ അതിനെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകും അങ്ങിനെ നമുക്ക് ഈ ദീർഘചതുരം ലഭിക്കും അടുത്ത ക്ലാസ്സിൽ ഈ പദ്ധതികളെക്കുറിച്ച് നമുക്കു കൂടുതൽ അറിയാം